എനർജി കപ്പിൾഡ് സർക്യൂട്ടും ഐഡിയൽ ട്രാൻസ്ഫോർമറും നമസ്കാരം കഴിഞ്ഞ സെഷനിൽ നമ്മൾ കാന്തിക കപ്പിൾഡ് സർക്യൂട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്തു നമ്മൾ ഇന്ന് ചർച്ച തുടരും ഒപ്പം കാന്തിക കപ്പിൾഡ് സർക്യൂട്ടുകളിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും സംസാരിക്കും അതിനുശേഷം നമ്മൾ അനുയോജ്യമായ ട്രാൻസ്ഫോർമറിനെക്കുറിച്ച് ചർച്ച ചെയ്യും ഇന്നത്തെ സെഷന്റെ ചർച്ച നമുക്ക് ആരംഭിക്കാം ഇൻഡക്ടറിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം നൽകുന്നത് കാന്തികമായി ചേർത്ത കോയിലിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം നിർണ്ണയിക്കാൻ ഇനിപ്പറയുന്ന സർക്യൂട്ട് പരിഗണിക്കാം ഉം ഉം ഇടത് വലത് കോയിലുകളിലെ വൈദ്യുതധാരകൾ ആണ് എന്നത് ആദ്യത്തെ വോൾട്ടേജും എന്നത് രണ്ടാമത്തെ കോയിലിലുടനീളം ഉള്ള വോൾട്ടേജുമാണ് അവയ്ക്ക് ഇൻഡക്റ്റൻസുകളുണ്ട് കൂടാതെ M എന്നത് പരസ്പര ഇൻഡക്റ്റൻസാണ് ആദ്യം എന്ന വൈദ്യുതധാരകൾ തുടക്കത്തിൽ പൂജ്യമാണെന്ന് നമുക്ക് അനുമാനിക്കാം അതായത് സർക്യൂട്ടിൽ സംഭരിച്ചിരിക്കുന്ന മൊത്തം ഊർജ്ജം 0 ന് തുല്യമാണ് 0 ൽ നിന്ന് വരെ വർദ്ധിപ്പിക്കാൻ അനുവദിക്കുന്നു അതായത് നമ്മൾ ഒരു ഏകപക്ഷീയമായ മൂല്യം പരിഗണിക്കുന്നു കറന്റ് നിലനിർത്തുന്ന സമയത്ത് കോയിൽ 1 ലെ പവർ എന്നത് കൂടാതെ സർക്യൂട്ടിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം 0 ൽ നിന്ന് വരെ കറന്റ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ പരിഗണിക്കുന്നത് ഏകപക്ഷീയമായ മൂല്യമാണ് ആദ്യ കോയിലിൽ വൈദ്യുതധാരകൾ നിലനിർത്തുന്ന സമയത്ത് ആദ്യത്തെ കോയിലിലെ ഇൻഡ്യൂസ്ഡ് മ്യൂച്വൽ വോൾട്ടേജ് ആയിരിക്കും കോയിൽ 2 ൽ ആയിരിക്കുമ്പോൾ ഇത് പൂജ്യമായിരിക്കും കാരണം I 1 ൽ മാറ്റമൊന്നുമില്ല അതിനാൽ കോയിൽ 2 ലെ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അതായത് പൂജ്യമായിരിക്കും കോയിൽ രണ്ടിനായി നമുക്ക് മ്യൂച്വൽ വോൾട്ടേജും മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും ഉണ്ടാകും അതിനാൽ കറന്റിലെ വർദ്ധനവ് മൂലം കോയിലുകളിലെ പവർ നൽകുന്നത് സർക്യൂട്ടിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം നൽകുന്നത് ഉം ഉം രണ്ടും അവയുടെ സ്ഥിരമായ മൂല്യത്തിൽ എത്തുമ്പോൾ സർക്യൂട്ടിൽ സംഭരിച്ചിരിക്കുന്ന മൊത്തം ഊർജ്ജം പരിഗണിക്കപ്പെടും അതിനാൽ സർക്യൂട്ടിൽ സംഭരിച്ചിരിക്കുന്ന മൊത്തം ഊർജ്ജം ഇതായിരിക്കും ഇപ്പോൾ നമ്മൾ അവയുടെ അന്തിമ മൂല്യങ്ങളിൽ എത്തുന്ന ക്രമം വിപരീതമാക്കും അതിനർത്ഥം ആദ്യം നമ്മൾ 0 ൽ നിന്ന് ലേക്ക് വർദ്ധിക്കുകയും പിന്നീട് 0 ൽ നിന്ന് ലേക്ക് വർദ്ധിക്കുകയും ചെയ്യും ഇപ്പോൾ സംഭരിച്ച മൊത്തം ഊർജ്ജം അന്തിമ അവസ്ഥയിൽ എത്തുമ്പോൾ പരിഗണിക്കാതെ തന്നെ ആയിരിക്കണം ഈ രണ്ട് സമവാക്യങ്ങളും താരതമ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലളിതമായി പറയാൻ കഴിയും നമുക്ക് എഴുതാൻ കഴിയുന്ന സർക്യൂട്ടിൽ സംഭരിച്ചിരിക്കുന്ന മൊത്തം ഊർജ്ജം രണ്ട് കോയിലുകളിലെയും വൈദ്യുതധാരകൾ ഡോട്ട് ഇട്ട ടെർമിനലിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് അനുമാനിച്ചാണ് ഇപ്പോൾ ഈ സമവാക്യം ഉരുത്തിരിഞ്ഞത് അതായത് രണ്ട് കോയിലിലും പ്രചോദിപ്പിക്കപ്പെട്ട പരസ്പര വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും ഒരു കറന്റ് ഡോട്ട്ഡ് ടെർമിനലിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊന്ന് ഡോട്ട്ഡ് ടെർമിനലിൽ നിന്ന് പുറത്തുപോകുകയാണെങ്കിൽ മ്യൂച്വൽ വോൾട്ടേജ് ഇപ്പോൾ നെഗറ്റീവ് ആയി മാറുന്നു അങ്ങനെയാകുമ്പോൾ പരസ്പര ഊർജ്ജവും നെഗറ്റീവ് ആയിരിക്കും അതിനാൽ സർക്യൂട്ടിൽ സംഭരിച്ചിരിക്കുന്ന മൊത്തം ഊർജ്ജം മാറും ഇപ്പോൾ നമ്മൾ ഉം ഉം പരിഗണിക്കുകയും ചില ഏകപക്ഷീയമായ മൂല്യങ്ങളാകുകയും ചെയ്യും അതിനാൽ ജനറിക് ഉം ഉം സമവാക്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മാറ്റിസ്ഥാപിക്കുന്നത് പോലെ മറ്റേതൊരു മൂല്യത്തിനും പകരം വയ്ക്കാം സർക്യൂട്ടിൽ സംഭരിക്കപ്പെടുന്ന തൽക്ഷണ ഊർജ്ജത്തിന് പൊതുവായ പദപ്രയോഗം നൽകാം പൊതുവായ പദപ്രയോഗം

അതിനാൽ ഈ പ്ലസ് മൈനസ് കറന്റ് എങ്ങനെ ഡോട്ടുകളിൽ പ്രവേശിക്കുകയും പുറത്തേക്ക് പോകുന്നതിനെയും ആശ്രയിച്ചിരിക്കും ഇപ്പോൾ നമ്മൾ പരസ്പര പദം പോസിറ്റീവ് ചിഹ്നം തിരഞ്ഞെടുക്കും രണ്ട് വൈദ്യുതധാരകളും ഡോട്ട് ഇട്ട ടെർമിനലുകളിൽ പ്രവേശിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയി പരിഗണിക്കും പരസ്പര ഇൻഡക്റ്റൻസിനായി ഉയർന്ന പരിധി സ്ഥാപിക്കാൻ ശ്രമിക്കാം സർക്യൂട്ടിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം നെഗറ്റീവ് ആകാൻ കഴിയില്ല കാരണം നമ്മൾ സംസാരിക്കുന്നത് നിഷ്ക്രിയ സ്വഭാവമുള്ള സർക്യൂട്ടിനെക്കുറിച്ചാണ് അതിനാൽ നമുക്ക് സൌകര്യപൂർവ്വം പറയാൻ കഴിയും ഇപ്പോൾ എക്സ്പ്രഷനിൽ നമുക്ക് രണ്ട് ചതുര പദങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ആദ്യം പൂർണ്ണമായ സ്ക്വയർ സൃഷ്ടിക്കുന്നു അതിനാൽ എന്തുചെയ്യും നമ്മൾ അടിസ്ഥാനപരമായി എക്സ്പ്രഷനിൽ ചേർക്കുകയും കുറയ്ക്കുകയും ചെയ്യും നമ്മൾ ചേർക്കുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മുകളിലുള്ള സമവാക്യം ലളിതമാക്കാൻ കഴിയും ഈ പദം വർഗ്ഗം ആയതിനാൽ ഇത് ഒരിക്കലും നെഗറ്റീവ് ആകാൻ കഴിയില്ല കുറഞ്ഞത് അത് പൂജ്യമാകാം അതിനാൽ മാനദണ്ഡങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത സ്ഥിരാങ്കം നമുക്ക് നേടാനാകും നമുക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത മാനദണ്ഡങ്ങൾ ലഭിക്കുന്നു നിങ്ങൾ ലളിതമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ പരസ്പര ഇൻഡക്റ്റൻസ് കോയിലിന്റെ സ്വയം ഇൻഡക്റ്റൻസുകളുടെ ജ്യാമിതീയ ശരാശരിയേക്കാൾ വലുതായിരിക്കരുത് ഇപ്പോൾ ഈ അവസ്ഥ നമുക്ക് ഒരു സമത്വ സ്ഥിരാങ്കമായി പരിവർത്തനം ചെയ്യാം നിങ്ങൾ ഇത് സമത്വത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് ചില സ്ഥിരമായ k ഉപയോഗിച്ച് ഗുണിക്കാം അതായത് അതിനാൽ k നെ കോഫിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് വിളിക്കാം രണ്ട് കോയിലുകൾക്കിടയിലുള്ള കാന്തിക കപ്ലിംഗിന്റെ അളവാണ് കപ്ലിംഗിന്റെ ഗുണകം K യുടെ മൂല്യം ആയിരിക്കും K 1 ആണെങ്കിൽ സർക്യൂട്ട് തികച്ചും കപ്പിൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയും K 0 5 ൽ കുറവാണെങ്കിൽ സർക്യൂട്ട് അയഞ്ഞ കപ്പിൾ ആണെന്നും k 0 5 ൽ കൂടുതലാണെങ്കിൽ അത് ശക്തമായി കപ്പിൾ ചെയ്യുന്നുവെന്നും നമ്മൾ പറയുന്നു കപ്പിൾഡ് സർക്യൂട്ടിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ മനസിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം ഉം ആണെങ്കിൽ കപ്പിൾഡ് ഇൻഡക്റ്റൻസിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ട് കണ്ടാൽ എന്നിവ 5 4 ഹെൻറിയായി നൽകിയിരിക്കുന്നു അതിനാൽ k ആയിത്തീരുന്നത് k 0 56 ആയതിനാൽ നമുക്ക് പറയാം സർക്യൂട്ട് കർശനമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് K 0 5 ൽ കുറവാണെങ്കിൽ അത് അയഞ്ഞ കപ്പിൾ ആണെന്ന് നമുക്ക് പറയാം K ഒന്നിന് തുല്യമാണെങ്കിൽ സർക്യൂട്ട് തികച്ചും കപ്പിൾ ചെയ്തതായി നമുക്ക് പറയാം ഇപ്പോൾ നമ്മളുടെ അടുത്ത ജോലി സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം കണ്ടെത്തുക എന്നതാണ് അതിനാൽ കറന്റിന്റെ മൂല്യം കണക്കാക്കണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം സർക്യൂട്ടിന് തുല്യമായ ഫ്രീക്വൻസി ഡൊമെയ്ൻ നേടേണ്ടതുണ്ട് നമ്മൾ ഫ്രീക്വൻസി ഡൊമെയ്നിൽ തുല്യമായി പരിവർത്തനം ചെയ്യുമ്പോൾ ആ മൂല്യങ്ങളെല്ലാം സർക്യൂട്ടിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി ഡൊമെയ്നിൽ സർക്യൂട്ട് ലഭിക്കും വൈദ്യുതധാര സർക്യൂട്ടിന്റെ ഇടത് ഭാഗത്ത് ഒഴുകുന്നുവെന്നും സർക്യൂട്ടിന്റെ വലതുഭാഗത്ത് ഒഴുകുന്നുവെന്നും കരുതുക ഈ രണ്ട് വൈദ്യുതധാരകളും നിങ്ങൾ കാണുകയാണെങ്കിൽ രണ്ടും ഡോട്ടിലേക്ക് പോകുന്നു അതായത് പരസ്പര വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും മെഷ് 1 ന് മെഷ് 2 ന് മുകളിൽ പറഞ്ഞവയെ ആദ്യത്തെ ലൂപ്പിൽ പകരം വെക്കുകയാണെങ്കിൽ ലഭിക്കുന്നത് അടുത്ത ദൌത്യം നമുക്ക് ലഭിച്ച കറണ്ട് മൂല്യങ്ങളെ സമയ ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യണം എന്നതാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ ൽ ഊർജ്ജത്തിന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് മൂല്യം ആണ് അതിനാൽ കപ്പിൾഡ് ഇൻഡക്ടറുകളിൽ സംഭരിച്ചിരിക്കുന്ന മൊത്തം ഊർജ്ജം ഇതാണ് ഇനി നമുക്ക് അനുയോജ്യമായ ട്രാൻസ്ഫോർമർ എന്ന മറ്റൊരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കാം എന്താണ് അനുയോജ്യമായ ട്രാൻസ്ഫോർമർ അനുയോജ്യമായ ട്രാൻസ്ഫോർമർ മികച്ച കപ്ലിംഗ് ഉള്ള ഒന്നാണ് നിങ്ങൾക്ക് ഒരു കാന്തിക കപ്പിൾഡ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിന് തുല്യമായ കപ്ലിംഗ് കോഫിഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അതിനർത്ഥം തികഞ്ഞ കപ്ലിംഗ് ഉള്ള സർക്യൂട്ട് അനുയോജ്യമായ ട്രാൻസ്ഫോർമർ ആയിരിക്കും ധാരാളം തിരിവുകൾ ഉള്ള രണ്ടോ അതിലധികമോ കോയിലുകൾ ഉയർന്ന പെർമിയബിലിറ്റി ഉള്ള ഒരു പൊതുവായ കാമ്പിൽ അടങ്ങിയിരിക്കുന്നു ട്രാൻസ്ഫോർമർ കാമ്പിൽ നമുക്ക് ഉയർന്ന പെർമിയബിലിറ്റി ഉള്ളതിനാൽ ജനറേറ്റുചെയ്യുന്ന ഫ്ലക്സ് രണ്ട് കോയിലുകളുടെയും എല്ലാ തിരിവുകളിലേക്കും ബന്ധിപ്പിക്കും അവിടെ തികഞ്ഞ കപ്ലിംഗിന് കാരണമാകുന്നു അനുയോജ്യമായ ട്രാൻസ്ഫോർമർ രണ്ട് കപ്പിൾഡ് ഇൻഡക്റ്ററുകളുടെ പരിമിതപ്പെടുത്തുന്ന കേസാണ് അവിടെ ഇൻഡക്റ്റൻസ് അനന്തതയെ സമീപിക്കുകയും കപ്ലിംഗ് മികച്ചതുമാണ് ഇത് കൂടുതൽ വ്യക്തമായി മനസിലാക്കാൻ അനുയോജ്യമായ ട്രാൻസ്ഫോർമറിന്റെ ഒരു സർക്യൂട്ട് നമ്മൾ പരിഗണിക്കും ഈ സാഹചര്യത്തിൽ കോയിലിന്റെ ഇടതുവശത്ത് പ്രയോഗിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ കോയിലിന്റെ വലതുവശത്ത് പ്രയോഗിക്കുന്നു പരസ്പര ഇൻഡക്റ്റൻസാണ് രണ്ട് കോയിലുകളുടെയും സ്വയം ഇൻഡക്റ്റൻസുകളാണ് ഇപ്പോൾ രണ്ടും ഡോട്ടിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനർത്ഥം പരസ്പര വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും എന്നാണ് ആവൃത്തി ഡൊമെയ്നിൽ v 1 v 2 എന്നിവയ്ക്കുള്ള സമവാക്യങ്ങൾ നമുക്ക് എഴുതാം രണ്ട് സമവാക്യങ്ങളും സംയോജിപ്പിച്ച് തികഞ്ഞ കപ്ലിംഗിന്റെ കാര്യത്തിൽ എന്ന് നിങ്ങൾക്കറിയാം k എന്നത് ഒന്നിന് തുല്യമാണെന്ന് നിങ്ങൾ കണക്കാക്കുമ്പോൾ തികച്ചും കപ്പിൾഡ് കോയിലുകൾ ഈ മൂല്യം മുമ്പത്തെ സമവാക്യത്തിൽ ഉൾപ്പെടുത്തും ലളിതമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ എന്താണ് n ട്രാൻസ്ഫോർമറിന്റെ ടേൺസ് റേഷ്യോ എന്നാണ് n അറിയപ്പെടുന്നത് അതിനാൽ നിങ്ങൾ പദപ്രയോഗം കാണുകയാണെങ്കിൽ n അതേ രീതിയിൽ തുടരുകയാണെങ്കിൽ കപ്പിൾഡ് കോയിലുകൾ അനുയോജ്യമായ ട്രാൻസ്ഫോർമറായി മാറും ചുരുക്കത്തിൽ ട്രാൻസ്ഫോർമറിന് ഇനിപ്പറയുന്ന ഗുണങ്ങളുണ്ടെങ്കിൽ അത് അനുയോജ്യമാണെന്ന് പറയാം കോയിലുകൾക്ക് വളരെ വലിയ റിയാക്ക്ടെൻസ് ഉണ്ട് 2 കപ്ലിംഗ് കോഫിഫിഷ്യന്റ് ഒന്നിന് തുല്യമാണ് 3 പ്രാഥമിക ദ്വിതീയ കോയിലുകൾ നഷ്ടരഹിതമാണ് പ്രാഥമിക ദ്വിതീയ കോയിലുകൾക്ക് അനന്തമായ സ്വയം പ്രേരണകളുള്ള ഐക്യവും നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോർമറുമാണ് ഇപ്പോൾ അനുയോജ്യമായ ഒരു ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമറിന്റെ സർക്യൂട്ട് ചിഹ്നം സാധാരണയായി നമുക്ക് കോയിൽ 1 ഉം 2 ഉം ഉള്ളിടത്ത് കാണിക്കുന്നു പ്രാഥമിക കോയിലിലെ തിരിവുകളുടെ എണ്ണം N1 ആണ് ദ്വിതീയ കോയിലിലെ തിരിവുകളുടെ എണ്ണം ആണ് രണ്ട് കോയിലുകൾക്കിടയിലുള്ള ഇരട്ട വരകൾ ട്രാൻസ്ഫോർമറിൽ കാമ്പുണ്ടെന്ന് കാണിക്കുന്നു ഇപ്പോൾ പ്രാഥമിക വൈൻഡിംഗിന് തിരിവുകളും ദ്വിതീയ വൈൻഡിംഗിന് തിരിവുകളുമുണ്ട്

നമ്മൾ ഇപ്പോൾ എന്തു ചെയ്യും നമ്മൾ ഇപ്പോൾ കണ്ട ട്രാൻസ്ഫോർമർ സർക്യൂട്ടിൽ ഈ സിനുസോയ്ഡൽ വോൾട്ടേജ് പ്രയോഗിക്കും ഈ സാഹചര്യത്തിൽ കാന്തിക പ്രവാഹം ജനറേറ്റുചെയ്യുന്നത് രണ്ട് വൈൻഡിംഗുകളിലൂടെയും കടന്നുപോകും വോൾട്ടേജുകൾ കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് ഫാരഡേസ് നിയമം പ്രയോഗിക്കാൻ കഴിയും പ്രാഥമിക കോയിലിൽ നിങ്ങൾ വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് പറയാം അതുപോലെ ദ്വിതീയ വൈൻഡിംഗിനു കുറുകെയുള്ള വോൾട്ടേജ് ഇപ്പോൾ നിങ്ങൾ രണ്ട് സമവാക്യങ്ങളും വിഭജിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നു അത് ട്രാൻസ്ഫോർമറിന്റെ ടേൺസ് റേഷ്യോ അല്ലാതെ മറ്റൊന്നുമല്ല വൈദ്യുതി സംരക്ഷണത്തിനായി പ്രാഥമിക വൈൻഡിംഗിനു വിതരണം ചെയ്യുന്ന ഊർജ്ജം ദ്വിതീയ വൈൻഡിങ് ആഗിരണം ചെയ്യുന്ന ഊർജ്ജത്തിന് തുല്യമായിരിക്കണം അതിനാൽ നിങ്ങൾ ഊർജ്ജ സംരക്ഷണ നിയമം പാലിക്കുമ്പോൾ അനുയോജ്യമായ ട്രാൻസ്ഫോർമറിന്റെ മൂല്യം ആണ് നമുക്ക് ഇങ്ങനെ എഴുതാം ആകുമ്പോൾ ട്രാൻസ്ഫോർമറിനെ ഒരു ഐസുലേഷൻ ട്രാൻസ്ഫോർമർ എന്ന് വിളിക്കുന്നു ആകുമ്പോൾ അതിനെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്ന് വിളിക്കുന്നു ആകുമ്പോൾ അതിനെ ഒരു സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമർ എന്ന് വിളിക്കുന്നു പ്രാഥമിക വോൾട്ടേജിനേക്കാൾ കുറവുള്ള ദ്വിതീയ വോൾട്ടേജുകളാണ് സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിന്റെ കാര്യത്തിൽ സെക്കൻഡറി വോൾട്ടേജ് അതിന്റെ പ്രാഥമിക വോൾട്ടേജിനേക്കാൾ വലുതാണ് ഇപ്പോൾ ട്രാൻസ്ഫോർമറിനായുള്ള വൈദ്യുതധാരകളുടെ വോൾട്ടേജുകളുടെയും ദിശകളുടെയും ശരിയായ ധ്രുവത അഥവാ പൊളാരിറ്റി ലഭിക്കേണ്ടത് പ്രധാനമാണ് ൻറെ ധ്രുവത അല്ലെങ്കിൽ ദിശ അല്ലെങ്കിൽ ൻറെ ദിശ മാറ്റുകയാണെങ്കിൽ ന്റെ മൂല്യം n ആയി മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് നമ്മൾ അഥവാ ഉപയോഗിക്കണമോ വേണ്ടയോ എന്ന് എങ്ങനെ കണ്ടെത്താം നമ്മൾ ഇനിപ്പറയുന്ന നിയമങ്ങൾ ഉപയോഗിക്കും • ഉം ഉം രണ്ടും ഡോട്ട് ടെർമിനലുകളിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും ഡോട്ട് ടെർമിനലുകൾ ട്രാൻസ്ഫോർമർ വോൾട്ടേജ് സമവാക്യത്തിലാണ് n ഉപയോഗിക്കുക അല്ലെങ്കിൽ n ഉപയോഗിക്കുക • രണ്ടും പ്രവേശിക്കുകയോ രണ്ടും ഡോട്ട് ഇട്ട ടെർമിനലുകൾ വിടുകയോ ചെയ്താൽ ട്രാൻസ്ഫോർമർ കറണ്ട് സമവാക്യത്തിൽ n ഉപയോഗിക്കുക അല്ലെങ്കിൽ n ഉപയോഗിക്കുക ഈ രണ്ട് നിയമങ്ങളും നമ്മൾ പിന്തുടരുകയാണെങ്കിൽ വോൾട്ടേജിനും കറന്റിനുമുള്ള സാധ്യമായ കോമ്പിനേഷനുകൾ നാലാണ് അതിനാൽ അനുയോജ്യമായ ട്രാൻസ്ഫോർമറിനായി നമുക്ക് സർക്യൂട്ടുകളുടെ സാധ്യമായ നാല് കോമ്പിനേഷനുകൾ ഉണ്ടായിരിക്കാം ആ നാല് സർക്യൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഡോട്ട് ഇട്ട ടെർമിനലിൽ and രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ കറന്റ് അകത്തേക്ക് പോകുകയും കറന്റ് ഡോട്ട്ഡ് ടെർമിനലിന് പുറത്ത് പോകുകയും ചെയ്യുന്നു ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ടെർമിനലിന്റെ ഡോട്ട് ഇട്ട ഭാഗത്ത് വോൾട്ടേജ് ടെർമിനലുകൾ പോസിറ്റീവ് ആണ് അതിനാൽ നമുക്ക് എഴുതാം പക്ഷേ ഇപ്പോൾ വൈദ്യുതധാരയുടെ ദിശ വിപരീതമാണ് അതിനാൽ മൂന്നാമത്തെ കേസ് ഇടതുവശത്തുള്ള വോൾട്ടേജുകളുടെ മൂല്യം ഡോട്ട് ഇട്ട ടെർമിനലിന് വോൾട്ടേജിന്റെ നെഗറ്റീവ് പോളാരിറ്റി ഉണ്ട് വലതുവശത്ത് വോൾട്ടേജിന്റെ പോസിറ്റീവ് പോളാരിറ്റി ഉണ്ട് അതിനാൽനമുക്ക് എഴുതാം രണ്ട് കോയിലുകളിലും കറന്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നാലാമത്തെ കേസിൽ നിങ്ങളുടെ വോൾട്ടേജുകൾക്ക് ഈ കേസിൽ നമ്മൾ കണ്ട അതേ ധ്രുവതയുണ്ട് ഇവിടെ ഡോട്ട്ഡ് ടെർമിനലിൽ V1 പോസിറ്റീവും നെഗറ്റീവും ആണ് അതിനാൽ കറന്റിന്റെ കേസിൽ കറന്റ് I1 ഡോട്ട്ഡ് ടെർമിനലിനകത്തേക്ക് പോകുന്നു അതേസമയം I2 ഡോട്ട് ഇട്ട ടെർമിനലിനുള്ളിലും പോകുന്നു കാരണം നിങ്ങൾ വൈദ്യുതധാരയുടെ പാത കണ്ടെത്തുകയാണെങ്കിൽ I2 ഇവിടെ നിന്ന് ഡോട്ട് ഇട്ട ടെർമിനലിനുള്ളിൽ പോയി മുകളിൽ നിന്ന് പുറത്തുവരും അതിനാൽ ഇതോടെ കാന്തികമായി കപ്പിൾഡ് സർക്യൂട്ടുകളിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ച് നമ്മളുടെ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം അനുയോജ്യമായ ട്രാൻസ്ഫോർമറിനെക്കുറിച്ചും അവയുടെ വിവിധ കണക്ഷനുകളെക്കുറിച്ചും ധ്രുവീയതയെക്കുറിച്ചും ചർച്ച ചെയ്തു അനുയോജ്യമായ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ തുടരും